ഡിസൈൻ ഫോർ ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സ് പ്രൊഫ ടി വി പ്രഭാകർ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ലെക്ച്ചർ 14 എനർജി പവർ കണ്ടീഷനിംഗ് വിത്ത് എനർജി ഹാർവെസ്റ്റേഴ്സ് I ഈ എനർജി ഹാർവേസ്റ്റിങ് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം എങ്ങനെ തുടങ്ങാം എന്നു നോക്കാം വളരെ പോപ്പുലർ ആയ എന്തെങ്കിലും നമുക്ക് എടുക്കാം മറ്റ് എനർജി ഹാർവേസ്റ്റിങ് സോഴ്സുകളും നോക്കാം ആദ്യം നമുക്ക് സോളാർ പാനലുകളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒന്നാണ് സോളാർ പാനൽ സോളാർ പാനലിലോ മറ്റ് ഹാർവേസ്റ്റിങ് ഉപകരണങ്ങളിലോ എല്ലായ്പ്പോഴും പരമാവധി പവർ നൽകുന്ന ഒരു പോയിന്റുണ്ടെന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനാൽ നിങ്ങൾ ഈ കാര്യം ഓർക്കുന്നുണ്ടാവാം ആംബിയന്റ് അവസ്ഥയിലുള്ള പരമാവധി പവർ ട്രാൻസ്ഫറിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനർത്ഥം എനർജി ഹാർവേസ്റ്റിങ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഘടകങ്ങളായ പരമാവധി പവർ പോയിന്റ് ട്രാക്കിംഗ് സിസ്റ്റങ്ങളും ചിപ്പുകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതിനാൽ എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രധാന കാര്യം എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്കാം ഈ ആക്സിസ് സമയം ആണെന്ന് കരുതുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തെന്നാൽ പവർ കണ്ടീഷനിംഗ് അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിച്ച ഏത് സിസ്റ്റത്തിന്റെയും ഔട്ട്പുട്ട് ഈ പോയിന്റിലേക് വോൾട്ടേജ് മാറുന്നു എന്ന് നമുക്ക് പറയാം ഇത് ഏകദേശം 3 3 വോൾട്ട് ആണ് ഇപ്പോൾ ഔട്ട്പുട്ട് ലോഡ് Vout ആയിരിക്കട്ടെ നിങ്ങൾ ഈ ലോഡ് മാറ്റുമ്പോൾ ഈ മീറ്ററിൽ വോൾട്ടേജ് കുറയുന്നു അതിനാൽ നിങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ R മൂല്യം ലോഡുചെയ്യുമ്പോൾ വോൾട്ടേജ് 0 വോൾട്ടിലേക്ക് താഴുന്നു ഈ വോൾട്ടേജ് എപ്പോൾ കുറയുന്നു എപ്പോഴാണ് വർദ്ധനവ് ആരംഭിക്കുന്നത് അതിനാൽ ഇതുപോലുള്ള വർദ്ധിച്ചുവരുന്ന കറന്റ് വരയ്ക്കാം നിങ്ങൾ ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് I എന്ന കറണ്ടാണ് ഇവിടെ ഉള്ളത് ഇതാണ് Vout അതാണ് നിങ്ങൾ അളക്കുന്നത് ഇത് Vout ആണ് ഈ പോയിന്റ് നോക്കൂ ഈ വോൾട്ടേജും കറണ്ട് കർവുകളും തമ്മിൽ കൂട്ടി മുട്ടുന്ന ഒരു പോയിന്റുണ്ട് അത് ഒപ്റ്റിമൽ പോയിന്റാണ് ഇതിനപ്പുറം നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ഒരു വോൾട്ടേജും നൽകില്ല വോൾട്ടേജ് 0 ലേക്ക് പോകും ഇതിലും താഴെയുള്ള എന്തും നിങ്ങളുടെ സിസ്റ്റത്തെ പൂർണ്ണമായും ലോഡുചെയ്യില്ല അതിനർത്ഥം നിങ്ങൾ ആവശ്യത്തിന് കറന്റ് ഡ്രോ ചെയ്യുന്നില്ല ഇത് ഒരു പ്രശ്നമാണ് കാരണം ലോഡുകൾക്ക് ആവശ്യമായ അളവിലുള്ള കറന്റും വോൾട്ടേജും പ്രവർത്തിക്കാൻ ആവശ്യമാണ് പ്രവർത്തിക്കാൻ ആവശ്യമായ പവറും വേണം എന്നാൽ പവർ ആവശ്യകതകളും നിറവേറ്റില്ല അതിനാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഇത് തീർച്ചയായും പരമാവധി പവർ ട്രാക്കിംഗ് പോയിന്റാണ് അതിനാൽ നിങ്ങൾ സോളാർ അല്ലെങ്കിൽ കാറ്റ് പോലുള്ള ഏതെങ്കിലും എനർജി ഹാർവെസ്റ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഈ വേരിയബിൾ ഇൻപുട്ട് സ്രോതസ്സുകളിലൊന്ന് നോക്കുകയാണെങ്കിൽ ഐസി ചിപ്പ് ഘടകത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിവരും ഇത് പ്രധാനമായും നിങ്ങൾക്ക് പരമാവധി പവർ പോയിന്റ് നൽകും കാരണം ഇൻപുട്ട് സമയവും മാറുന്നു വ്യക്തമായും അത് മാറുന്നു ഇത് സൂചിപ്പിക്കുന്നത് LDO ബക്ക് കൺവെർട്ടറുകൾ എന്നിവയിൽ സ്റ്റെബിലിറ്റിക്കായി ഉപയോഗിക്കുന്ന Vi Vout ഇൻപുട്ട് കപ്പാസിറ്റർ ഔട്ട്പുട്ട് കപ്പാസിറ്ററുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഞങ്ങൾ ഇത് നേരത്തെ ചർച്ചചെയ്തിരുന്നു ഇത് ഒരു LDO ആണ് Vi എല്ലായ്പ്പോഴും ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക Vi ഉള്ളപ്പോഴെല്ലാം Vout കാണുന്നു എന്നാൽ ഹാർവെസ്റ്റിംഗ് സർക്യൂട്ടിൽ നിങ്ങളുടെ Vi യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയില്ല അത് ഇടവിട്ടുള്ളതാണോ അതോ ഇടവിട്ടുള്ളതല്ലേ അതിനാൽ അത് ഒരു പ്രശ്നമാണ് സിലിക്കണിൽ ആവശ്യത്തിന് ലോജിക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരമാവധി പവർ പോയിന്റ് ഉണ്ടെങ്കിൽ അവ വളരെ കുറഞ്ഞ ഗ്രേഡ് ഇൻപുട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ കുറഞ്ഞ ഗ്രേഡിന് ആവശ്യമായ അൽഗോരിതം സങ്കൽപ്പിക്കുകയാണെങ്കിൽ ഇവയെല്ലാം കൊണ്ടുവരേണ്ടതാണ് എനർജി ഹാർവെസ്റ്റിന് അനുയോജ്യമായ ഒരു ഘടകമാണിത് ഇതാണ് പ്രധാന കാര്യം അതിനാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പുകൾ എടുക്കുകയും നിങ്ങൾ ഇവിടെ Vi കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി 2 തരം ഔട്ട്പുട്ടുകൾ ലഭിക്കും ഒന്നിനെ സാധാരണ Vout എന്നും മറ്റൊന്നിനെ VLDO എന്നും വിളിക്കുന്നു ഇത് സാധാരണയായി 2 2 പരിധിയിലാണ് വരുന്നത് ഇത് സാധാരണയായി നിങ്ങൾക്ക് ലോഡുകളിലേക്ക് 3 3 വോൾട്ട് കണക്റ്റു ചെയ്യാനനുവദിക്കുന്നു ഇൻപുട്ട് കുറഞ്ഞ ഗ്രേഡാണ് ഇൻപുട്ടായി നിങ്ങൾ ഒരു സോളാർ പാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ സൂര്യപ്രകാശo ഉള്ള സാഹചര്യങ്ങളിൽ ഒരൊറ്റ സോളാർ പാനൽ പരമാവധി 0 5 നൽകുന്നു അതായത് ഏകദേശം 550 ആണ് ഞാൻ ഇത് 550 അല്ലെങ്കിൽ 600 മില്ലിവോൾട്ടായി എഴുതാം ഇത് വളരെ കുറവാണ് ഇത് പരമാവധി കിട്ടാവുന്ന ഔട്ട്ഡോർ ലൈറ്റിംഗ് അവസ്ഥയാണ് ഇത് നിങ്ങൾക്ക് 250 മില്ലിവോൾട്ട് വരെ നൽകിയേക്കാം ഞാൻ ഇൻഡോർ മിനിമം ഇൻപുട്ട് ലൈറ്റിംഗ് അവസ്ഥയായി 0 25 വോൾട്ട് പറയും നിങ്ങൾക്ക് എത്ര ലഭിക്കും എന്ന് എങ്ങനെ അറിയും ഒന്നുകിൽ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക നിങ്ങളുടെ എനർജി ഹാർവെസ്റ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ എമ്പഡഡ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ IOT സിസ്റ്റം അല്ലെങ്കിൽ ഈ എനർജി ഹാർവെസ്റ്റിംഗ് സംവിധാനം ചെയ്യുന്ന നിങ്ങളുടെ IOT ഉപകരണം എന്നിവ രൂപകൽപ്പന ചെയ്യാൻ ആവശ്യമുള്ള അളവ് എത്രയാണെന്ന് പറയാൻ ഒരു എഞ്ചിനിയർ ആയ നിങ്ങൾക്ക് കഴിയും ഇത് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഉപയോഗിക്കാം അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഇൻഡോർ ആണെങ്കിൽ ഏത് തരം ലൈറ്റിംഗ് അവസ്ഥയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇൻഡോറിലെ പ്രകാശത്തിന്റെ അളവ് എന്താണ് ഇവിടെ ലൈറ്റ് എനർജി ശരിയായി വരുന്നില്ല ഈ ലൈറ്റ് എനർജി മാറ്റിയെഴുതാം ഇൻഡോറിലും ഔട്ട്ഡോറിലും ലഭ്യമാകുന്ന ലക്സ് എത്രയാണ് എന്തെങ്കിലും നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം

അതിനായി നിങ്ങൾ വളരെ വിലകുറഞ്ഞ ലക്സ് മീറ്റർ ഉപയോഗിക്കുന്നു എന്താണ് ഒരു ലക്സ് മീറ്റർ നമുക്ക് ഒരു മെഷർമെന്റ് ചെയ്യാം റൈയ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അളക്കുന്ന ലക്സിന്റെ അളവ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ലക്സ് മീറ്റർ എടുക്കും അത് 0 റീഡുചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ ഈ ലിഡ് എടുത്ത് ഇൻഡോർ ലൈറ്റിന് എതിരായി സ്ഥാപിക്കും അത് എത്രത്തോളം റീഡാണ് ഇത് ഏകദേശം 1000 ലക്സ് റീഡ് ചെയ്യുന്നു ഏകദേശം എൺപതിനായിരത്തോളം വരും അതിനാൽ ഇത് 900 നും 930 ലക്സിനും ഇടയിൽ മാറികൊണ്ടിരിക്കുന്നു അതിനാൽ എല്ലാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം പക്ഷേ ഞാൻ ഇത് പഴയപടിയാക്കും ഇത് യഥാർത്ഥത്തിൽ റീഡ് ചെയ്യുന്ന ഘടകമാണ് അതിനാൽ ഞാൻ അത് പഴയപടിയാക്കി ഞാൻ അത് വിപരീതമാക്കുകയാണെങ്കിൽ എനിക്ക് കുറഞ്ഞ പ്രകാശം ലഭിക്കണം നിങ്ങൾക്ക് ഇവിടെ 200 ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വാല്യു ലഭിക്കും അത് 200 ന് അടുത്താണ് ഇത് ഏകദേശം 185 ആണ് അതിനാൽ ഞാൻ ഇത് അടയ്ക്കുകയാണെങ്കിൽ അത് 0 ലേക്ക് തിരികെ പോകും ഞാൻ അത് അടച്ചു ഞാൻ ഇവിടെ വീണ്ടും തുറക്കുന്നു അതിനാൽ നിങ്ങൾ ഏകദേശം 200 ലക്സ് കാണുന്നു ഞാൻ ഇത് ഇതുപോലെ തുറന്ന് ലൈറ്റ് ബൾബുകൾക്കെതിരെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ എനിക്ക് 900 ലക്സ് ലഭിക്കുന്നു സോളാർ ഇൻഡോറിൽ വെയ്ക്കരുത് സോളാർ പാനൽ ചില അർബിട്രറി സ്ഥാനത്ത് വയ്ക്കുക എനിക്ക് 200 ലക്സ് ലഭിച്ചാലും 400 ലക്സ് ലഭിച്ചാലും ഞാൻ സന്തോഷവാനാണ് നിങ്ങളുടെ ഇൻഡോർ സോളാർ പാനലിനെ ഓറിയന്റുചെയ്യേണ്ട രീതി അതല്ല നിങ്ങളുടെ ഇലക്ട്രോണിക്സ് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് പരമാവധി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇൻഡോറിൽ ഏത് തരം പാനലുകളാണ് നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം അതിനാൽ ഈ പ്രകടനം നിങ്ങൾക്ക് നല്ലതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലളിതമായ ലക്സ് മീറ്റർ ഏതാനും നൂറു രൂപയ്ക്ക് ലഭ്യമാണ് എനർജി ഹാർവെസ്റ്റിംഗിനൊപ്പം ഇൻഡോർ ആപ്ലിക്കേഷനുകൾക്കായി നിങ്ങളുടെ IOT ഉപകരണം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് വാങ്ങാനും മെഷർ ചെയ്യാനും കഴിയും അതാണ് നിങ്ങൾ അവസാനം ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് തിരികെ വയ്ക്കുകയും കൂടുതൽ എന്തെങ്കിലും കാണിക്കുകയും ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പാനലുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു സോളാർ പാനലാണ് ഇത് ഏകദേശം 2 സെന്റീമീറ്റർ ക്രോസ് ആണ് നിങ്ങളുടെ Iot ഉപകരണവും ഇലക്ട്രോണിക്സും ഇതിന് പിന്നിൽ യോജിച്ചേക്കാം നിങ്ങളുടെ കെട്ടിടത്തിനകത്തോ വീടിനകത്തോ ചില പാരാമീറ്ററുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം അത് അളക്കുന്ന ചില സാധാരണ പാരാമീറ്ററാകാം ട്രാഫിക് സിഗ്നലുകൾക്കായി ഔട്ട്ഡോറിൽ നിങ്ങൾ കണ്ടിരിക്കാനിടയുള്ള വലിയ പാനലുകളെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വ്യക്തം ആവശ്യമുള്ള കുറച്ച് നൂറുകണക്കിന് വാട്ടുകളെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കുന്നത് മില്ലിവാട്ട് അളവിനെക്കുറിച്ചാണ് അതിനാൽ ഇത് സൈദ്ധാന്തികമായി നിങ്ങൾക്ക് 2 മില്ലി വാട്ട് പവർ നൽകുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ 10 ശതമാനം എഫിഷ്യൻസിയായി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 മില്ലി വാട്ട് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ അത് ഗുണനിലവാരമില്ലാത്ത പാനലാണെങ്കിൽ ഞങ്ങളുടെ അളവുകൾ 2 മില്ലി വാട്ട് പോലും സൂചിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ മൂല്യങ്ങൾ ലഭിക്കുന്നു ഉത്തരം തന്നെ അപൂർണ്ണമാണെന്ന് കാണുക നിങ്ങൾക്ക് 2 മില്ലി വാട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പരമാവധി ലൈറ്റിംഗ് അവസ്ഥയിൽ നിങ്ങൾക്ക് 2 മില്ലി വാട്ട് ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു പരമാവധി നമ്പർ ലഭിക്കുന്നുവെന്നാണ് ഈ നമ്പർ 200 300 എന്ന ലെവലിനാണ് കിട്ടുന്നത് ഞാൻ അതിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അത് 1000 വരെ പോകുന്നു 100000 150000 200000 എന്ന ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതിലും അല്പം കൂടുതലാണ് നിങ്ങൾക്ക് ഈ വാല്യുകൾ എപ്പോൾ ലഭിക്കും നിങ്ങൾക്കത് ഇൻഡോറിൽ ലഭിക്കില്ല നല്ല സൂര്യപ്രകാശത്തിൽ നിങ്ങൾക്ക് ഇത് ഔട്ട്ഡോറിൽ ലഭിക്കും നിങ്ങൾക്ക് 150000 അല്ലെങ്കിൽ 200000 ലക്സ് വരെ ലഭിക്കും ഒരു മേഘം വന്നാൽ അത് 50000 ആയി കുറയും അത് 25000 വരെ താഴ്ന്നേക്കാം അല്ലെങ്കിൽ 10000 ലക്സ് വരെ ആകാം പക്ഷേ ഇത് ഔട്ട്ഡോറിലാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇത് ഇൻഡോർ ആണെങ്കിൽ എത്ര ലഭിക്കും നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 1000 ലഭിക്കും എന്നാൽ ഇത് ചെയുകയാണെങ്കിൽ അത് 200 ആയി കുറയും നിങ്ങൾ ശരിയായി ഇൻഡോർ പാനലുകൾ ഓറിയന്റുചെയ്യുന്നില്ലെങ്കിൽ ഇൻഡോറിലും നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടാകും ഹാർവെസ്റ്റിംഗ് കൂടുതൽ എഫിഷ്യന്റായി നിങ്ങൾ അത് അറിയാൻ സാധ്യതയില്ല അതിനാൽ ഈ പാനലുകൾ എല്ലാം മികച്ചതാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഈ സിസ്റ്റത്തിൽ നിന്ന് പരമാവധി എനർജി ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അവയെ ഓറിയന്റുചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതില്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനർജി ഹാർവെസ്റ്റിങ്ങിൽ യാതൊരു അറിവുമില്ലാതെ ഇത് നടക്കില്ല എന്റെ പാനൽ എന്തായിരിക്കണം എനിക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം അത്തരത്തിലുള്ള എന്റെ ഇലക്ട്രോണിക്കുകളെല്ലാംഞാൻ എങ്ങനെ രൂപകൽപ്പന ചെയ്യണം അങ്ങനെ ചെയ്താൽ എനിക്ക് വേണ്ടുന്ന പാരാമീറ്ററുകൾ അളക്കുവാൻ ആവശ്യമായ ഔട്ട്പുട്ട് ലഭിക്കും അത് തീർച്ചയായും വിഷമകരമായ കാര്യമാണ് പക്ഷേ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എന്റെ മുൻ ക്ലാസുകളിലൊന്നിൽ ഞാൻ പറഞ്ഞിരുന്നു നെറ്റിൽ ലഭ്യമായ സൌജന്യ ടൂളുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ മടിക്കരുത് അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള സിമുലേഷനുകൾ നടത്തുകയും നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു സൈക്കിളെങ്കിലും സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് അവ യഥാർഥത്തിൽ നേടാൻ കഴിയുന്നോ എന്നും നോക്കണ്ടതാണ് അതിനാൽ ഇവയെല്ലാം കണക്റ്റുചെയ്യാം കോഴ്സിനിടെ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടേതായ കുറച്ചുകൂടി പരിശീലനം നടത്തുക യഥാർത്ഥത്തിൽ ഈ ഉദാഹരണങ്ങളെല്ലാം സ്വയം പരീക്ഷിക്കുക നമ്മൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് പോകാം ഇതാണ് എന്റെ കമ്പ്യൂട്ടർ ഞാൻ ഒരു സ്റ്റിമുലേറ്റർ ആരംഭിക്കും ഞാൻ എൽടി സ്പൈസ് എന്ന സിമുലേറ്റർ ഉപയോഗിക്കാൻ പോകുകയാണ് എൽടി സ്പൈസ് ലീനിയർ ടെക്നോളജീസ് എന്ന കമ്പനിയിൽ നിന്നുള്ളതാണ് അവർ ബെർക്ക്ലി സ്പൈസ് ഉപയോഗിച്ച് ഒരു വിദ്യാഭ്യാസത്തിനായുള്ള വെർഷൻ പുറത്തിറക്കി ഇത് പഠനത്തിന് സൌജന്യമായ ഒരു വിദ്യാഭ്യാസ പതിപ്പാണ് ലീനിയർ ടെക്നോളജികളുടെ എൽടിക്ക് നിരവധി മോഡലുകൾ ഉണ്ട് നിരവധി കമ്പൊണെൻ്റ് മോഡലുകളുടെ എണ്ണം ലഭ്യമാണ് ലീനിയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏത് ഘടകത്തിനും സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാൻ കഴിയും ഇതിന് ഒരു സർക്യൂട്ട് സിമുലേഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അടിസ്ഥാനപരമായി ഇതിനെ സർക്യൂട്ട് സിമുലേഷൻ എന്ന് വിളിക്കുന്നു ഞാൻ വിശദമായി പോകുന്നില്ല കാരണം സിമുലേഷനുകൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ് മാത്രമല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് നിങ്ങൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് സിമുലേഷൻ കമ്പോനെൻ്റിന് ഒരു കമ്പോനെൻ്റ് മോഡൽ ഉണ്ടാകും അത് ക്യാപ്ചർ ചെയ്ത കമ്പോനെൻ്റുകളുടെ ബിഹേവിയർ വിവരിക്കുന്നു അത് തീർച്ചയായും കമ്പോനെൻ്റ് മോഡലാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല കാരണം നിങ്ങൾ എല്ലാവരും P സ്പൈസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ബെർക്ക്ലി സ്പൈസുകളിൽ നിന്നും വരുന്നു വ്യത്യസ്ത ആളുകൾ P സ്പൈസ് തിരഞ്ഞെടുത്തത് ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വന്നത് അതേ സ്പൈസ് സിമുലേഷൻ ടൂൾ എൽടി സ്പൈസുകളിലും കിട്ടുന്നു നിരവധി ലീനിയർ ടെക്നോളജി കമ്പോണെൻ്റുകൾ ഉള്ളതിനാൽ ഞങ്ങൾ ഇതിനെ എൽടി സ്പൈസ് എന്ന് വിളിക്കുന്നു അതിനാൽ ടെക്നോളജി സ്പൈസുകൾ ഓപ്പൺ ചെയ്ത് കുറച്ച് എനർജി ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കാം എനർജി ഹാർവെസ്റ്റിംഗിനായുളള സർക്യൂട്ടുകൾ ഈ എൽടി സ്പൈസിൽ ലഭ്യമാണ് ഹാർവെസ്റ്റിംഗ് സർക്യൂട്ടായ എൽടിസി 3105 ലീനിയർ ടെക്നോളജികളിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ഒരു സർക്യൂട്ട് നിർമ്മിക്കാൻ കഴിയണം എൽടിസി 3105 ഒരു ബൂസ്റ്റ് കൺവെർട്ടറാണ് നിങ്ങൾക്ക് എപ്പോഴണ് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ വേണ്ടത് 2 അല്ലെങ്കിൽ 3 3 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേക കമ്പോണെൻ്റ് തിരഞ്ഞെടുത്തത് ഇത് ബെയറിംഗ് മോണിറ്ററിംഗ് ആപ്ലിക്കേഷനിലേക്ക് തിരികെ കണ്ടീഷൻ മോണിറ്ററിംഗിനെക്കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണമായി ഞാൻ ഇതിനെ എടുക്കുകയാണ് ഞങ്ങൾ ഈ എൽടിസി 3105 ഉപയോഗിക്കുന്ന ബോൾ ബെയറിംഗുകളെ നിരീക്ഷിക്കാം അതിനാൽ നിങ്ങൾക്ക് എൽടിസി 3105 സിമുലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം എനർജി ഹാർവെസ്റ്റിംഗിനുള്ള നിരവധി ചിപ്പുകളും കമ്പോണെൻ്റുകളും ലീനിയർ ടെക്നോളജി വികസിപ്പിച്ചിട്ടുണ്ട് ടിഐ മാക്സിം ഇവയിൽ ഉൾപ്പെടുന്നു ഒരു വെണ്ടർമാരോടും എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പക്ഷപാതവുമില്ല വാസ്തവത്തിൽ ടിഐക്ക് BQ 25504 എന്ന മറ്റൊരു ചിപ്പ് ഉണ്ട് അത് വളരെ ജനപ്രിയമാണ് എൽടിസി 3105 ഉപയോഗിച്ച് ഇൻപുട്ട് അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് ജനറേഷൻ സാധ്യമാകുന്ന എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പാണ് ഇത് അടിസ്ഥാനപരമായി ഒരു ഡിസി ഡിസി കൺവെർട്ടറാണ് വാസ്തവത്തിൽ എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പുകളിൽ ഭൂരിഭാഗവും ഏതെങ്കിലും രൂപത്തിലോ മറ്റോ ഉണ്ടാക്കുന്നു അവ അടിസ്ഥാനപരമായി DC DC കൺവെർട്ടറുകളാണ് അവ ബൂസ്റ്റ് കൺവെർട്ടറുകൾ എന്നറിയപ്പെടുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് മടങ്ങാം ബൂസ്റ്റ് കൺവെർട്ടറുകളിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഇവിടെ ഔട്ട്പുട്ട് സെൻസിംഗ് ഒരു പൂർണ്ണ ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ് അവിടെ PWM ജനറേറ്ററും ഉണ്ട് PWM ഔട്ട്പുട്ട് അടിസ്ഥാനപരമായി സീരീസ് പാസ് കമ്പോനെൻ്റിനെ നയിക്കുന്നു കൂടാതെ PWMന്റെ ഡ്യൂട്ടി സൈക്കിൾ യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തീരുമാനിക്കുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നത് PWM സിഗ്നലാണ് എനർജി ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഈ ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രത്യേകത എന്താണ് എന്നതാണ് ചോദ്യം എൽടിസി 3105 നൊപ്പം കുറച്ച് സിമുലേഷനുകൾ കാണുകയും അതിന്റെ പിന്നുകൾ മനസിലാക്കുകയും ചെയ്യാം തിരഞ്ഞെടുത്ത കമ്പോണെൻ്റുമായി ബന്ധപ്പെട്ട് ഔട്ട്പുട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുക അതിനാൽ ഇതാണ് പശ്ചാത്തലം നമുക്ക് ഇപ്പോൾ എൽടി സ്പൈസിലേക്ക് പോകാം ഞാൻ എൽടി സ്പൈസ് തുറക്കാം നിങ്ങൾക്ക് വെബിൽ നിന്ന് എൽടി സ് പൈസുകൾ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയും ഇൻസ്റ്റാൾ ചെയ്ത് ഇൻപുട്ട് LTC 3105 തുറക്കുക ഇതാണ് എൽടിസി 3105 ഞാൻ ലീനിയർ ടെക്നോളജീസിന്റെ വെബ്സൈറ്റ് കണ്ടിരുന്നു എൽടിസി 3105 ഉം അതുമായി ബന്ധപ്പെട്ട സർക്യൂട്ടും ഡൌൺലോഡുചെയ്തു ഈ ചിപ്പ് വാങ്ങുന്നതിനുമുമ്പ് ഈ കമ്പോണെൻ്റുകളെല്ലാം ഹുക്ക് അപ്പ് ചെയ്യുന്നതിനുമുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടീഷന് ഇത് അനുയോജ്യമാണോയെന്ന് നിങ്ങൾ സിമുലേറ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഒരു ഇൻപുട്ട് ഉണ്ടെന്ന് ഓർമ്മിക്കുക നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഞാൻ സോളാർ പാനലിനെ ഈ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സായി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണ് അത് ഇവിടെ പോകുന്നു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് 3 3 വോൾട്ട് നൽകാനാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഫീഡ്ബാക്ക് Vout പിന്നിൽ നിന്ന് ഫീഡ്ബാക്ക് പിന്നിലേക്ക് കിട്ടുന്നു ഇതൊരു റെസിസ്റ്റർ ഡിവൈഡർ നെറ്റ്വർക്കാണ് ഔട്ട്പുട്ട് എല്ലായ്പ്പോഴും 3 3 ആയി തുടരുന്ന രീതിയിൽ ആവശ്യമായ ഫീഡ്ബാക്ക് ഇത് നൽകുന്നു ഇതിന് ഔട്ട്പുട്ടിൽ ഒരു എൽഡിഒ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരു ചിപ്പ് ആണ് അത് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ മാത്രമല്ല ഔട്ട്പുട്ടിൽ ഒരു എൽഡിഒയും ഉണ്ട് നിങ്ങൾക്ക് 2 ഔട്ട് ഉണ്ട് പ്രധാനമായും എൽഡിഒ ഔട്ട്പുട്ട് Pgood എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് അത് പവർ ഗുഡാണ് ഇത് നിങ്ങൾക്ക് ഒരു മൈക്രോകൺട്രോളറുമായി ഇന്റർഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഔട്ട്പുട്ട് പിൻ ആണ് എൽടിസി 3105 ൽ നിന്ന് വരുന്ന മൈക്രോകൺട്രോളറിന്റെ GPOO പിൻയിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്നത് Pgood ആണ് അധിക പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ പിൻ ഉപയോഗിക്കുക വാസ്തവത്തിൽ ഞങ്ങളുടെ ബെയറിംഗ് ആപ്ലിക്കേഷനിൽ ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു ബിയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പിന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു അതിനാൽ ദയവായി ആ ഡിസ്ക്കഷനുകൾ നോക്കുക ഈ MPPCയും സവിശേഷതയാണ് ഇത് പ്രധാനമായും പവർ പോയിൻറ് കൺട്രോൾ പിൻ ആണ് ഇത് വളരെ സവിശേഷമായ കാര്യങ്ങൾ ചെയ്യുന്നു ഇത് വളരെ പ്രത്യേകമായ ഒരു പിൻ ആണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇത് എന്താണ് ചെയ്യുന്നത് ഒരു സാധാരണ ബൂസ്റ്റ് കൺവെർട്ടറും എനർജി ഹാർവെസ്റ്റിംഗ് ബൂസ്റ്റ് കൺവെർട്ടറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇൻപുട്ട് ചിലപ്പോൾ 0 ലേക്ക് പോകാം ഔട്ട്പുട്ട് ഇലക്ട്രോണിക്സ് ലോഡ് ചെയ്യാനും പാടില്ല എന്നതാണ് മുമ്പത്തെ ചർച്ചകളിലും ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നു അതിനാൽ ഒരു ഐസൊലേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഡൌൺസ്ട്രീം ഇലക്ട്രോണിക്സ് ലോഡ് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ലോഡിംഗ് ഇഫക്റ്റിനായി നിങ്ങൾക്ക് ഒരു ഹാൻഡിൽ ആവശ്യമാകും എന്നതിന്റെ ഒരു വ്യക്തമായ സൂചകമാണിത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരിക്കലും കുറയുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി എംപിപിസി ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഒരിക്കലും ഷട്ട് ഡൌൺ ആകുന്നില്ല അടിസ്ഥാനപരമായി എൽടിസി 3105 ഒരിക്കലും ശട് ഡൌൺ അല്ലെന്നും ഔട്ട്പുട്ട് ഓവർലോഡ് ചെയ്യുന്നില്ലെന്നും നിങ്ങൾ ഉറപ്പാക്കണം അതിനാൽ ഇത് ഒരു വിധത്തിൽ ഐസൊലേഷൻ നൽകുന്നു അതായത് ഡൌൺസ്ട്രീം ഇലക്ട്രോണിക്സിൽ നിന്നുള്ള ഐസൊലേഷൻ ഈ എംപിപിസി പിൻ ഇത് പ്രധാനമായും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങൾ എനർജി ഹാർവെസ്റ്റിംഗ് സോഴ്സായി ഒരു സോളാർ പാനൽ എടുക്കുകയും നല്ല ലൈറ്റിംഗ് സാഹചര്യമാണെങ്കിൽ ഒരൊറ്റ പാനലിൽ നിന്നു തന്നെ 600 മില്ലിവോൾട്ടിനടുത്ത് കിട്ടുകയും ചെയ്യും അതിനാൽ നമുക്ക് തിരികെ പോകാം അതിനാൽ ഇതിന് സിംഗിൾ പാനൽ സെൽ ആകാൻ കഴിയില്ല 25 ഡിഗ്രി താപനിലയിൽ ഇത് പരമാവധി 600 മില്ലിവോൾട്ട് നൽകുന്നു താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ വോൾട്ടേജ് കുറയുന്നു അത് പരമാവധി ലൈറ്റിംഗ് അവസ്ഥയിലാണ് കൂടാതെ കുറഞ്ഞ ഇൻഡോർ ലൈറ്റിംഗ് അവസ്ഥയിൽ നിങ്ങൾക്ക് 250 മില്ലിവോൾട്ട് ലഭിക്കും നിങ്ങൾ 2 സെല്ലുകൾ ഇടുകയാണെങ്കിൽ എംപിപിസിയിൽ നല്ല ലൈറ്റിംഗ് അവസ്ഥയിൽ നിങ്ങൾക്ക് 1 2 വോൾട്ട് പരമാവധി ലഭിക്കും നിങ്ങൾക്ക് ഇത് 700 മില്ലിവോൾട്ട് എംപിപിസി ആയി സജ്ജമാക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ റെസിസ്റ്ററുകളുപയോഗിച്ച് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പിൻ യഥാർത്ഥത്തിൽ എംപിപിസി പോയിന്റ് 700 മില്ലിവോൾട്ടുകളായി സജ്ജമാക്കും നിങ്ങൾക്ക് മനസിലാക്കാൻ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം 700 മില്ലിവോൾട്ട് ഇപ്പോളും ഇത് പ്രധാനമായും സോളാർ പാനലാണ് അത് നിങ്ങൾക്ക് വളരെ നല്ല ലൈറ്റിംഗ് നൽകും 2 വോൾട്ടുകളും ഇൻഡോർ സാഹചര്യങ്ങളിൽ ഓപ്പൺ സർക്യൂട്ടുകളും നിങ്ങൾക്ക് കാര്യമായ ഔട്ട്പുട്ടും നൽകും കാരണം ലക്സ് മോശമാണ് നിങ്ങൾക്ക് വളരെയധികം ഔട്ട്പുട്ട് എടുക്കാൻ കഴിയില്ല എന്നാൽ ഈ ഇൻപുട്ട് ഒരിക്കലും 700 മില്ലിവോൾട്ടിന്റെ സെറ്റ് പോയിന്റിൽ താഴെയാകില്ല ഈ ഔട്ട്പുട്ട് പവർ തീർച്ചയായും 3 3 ൽ എത്തിയേക്കാം എന്നാൽ വ്യത്യസ്ത ലോഡുകൾ ബന്ധിപ്പിക്കുമ്പോഴും ബക്ക് കൺവെർട്ടറിന്റെ ഔട്ട്പുട്ട് ലോഡിലേക്ക് കണക്റ്റുചെയ്യുമ്പോഴും അതിൽ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ റേഡിയോ ഉൾപ്പെടാം കൂടാതെ മറ്റ് എനർജി കൺസ്യൂമിംഗ് കമ്പൊനെൻ്റുകളും ഉണ്ട് അത് ഇലക്ട്രോണിക്സ് ഉറപ്പാക്കും ഈ ഇൻപുട്ട് ഒരിക്കലും 700 മില്ലിവോൾട്ടിന് താഴെയാകില്ല എന്ന നിയന്ത്രണത്തിലാണ് അവ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ മൈക്രോ കൺട്രോളറിൽ പ്രവർത്തിക്കുന്ന പവർ കൺസപ്ഷൻ എടുക്കുന്ന ഘടകങ്ങൾ റൺ ചെയ്യുന്നതിന്നതിനായുള്ള പവർ കപ്പാസിറ്ററിൽ നിന്ന് വരേണ്ടതാണെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഫറിംഗ് സംഭരിച്ചുകഴിഞ്ഞാൽ വൈദ്യുതി ഉപഭോഗ ഘടകത്തിനായി എത്തിക്കാനുള്ള ശക്തി ഇതിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കപ്പാസിറ്റർ വഴി ഇത് വിതരണം ചെയ്യേണ്ടിവരും അതിനാൽ ഈ ഇൻപുട്ട് സിസ്റ്റം തകരാറിലാകുന്നില്ല ഒപ്പം 0 ഔട്ട്പുട്ട് ഈ എംപിപിസി പിൻ ഉപയോഗിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത്തരം സാഹചര്യം ലഭിക്കില്ല അതിനാൽ ഞാൻ ചെയ്തത് സോളാർ പാനലിന് തുല്യമായ ഘടകം ഒരു വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് യഥാർത്ഥ ഇമ്പ്ലിമെൻ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം ഇത് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുക യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇതാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് 1 വോൾട്ടായി സജ്ജമാക്കിയിരിക്കുന്നു അതിനാൽ ഒരു ലോഡ് ഉണ്ട് അത് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ 3 3 നൽകും നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യണമെങ്കിൽ റൺ അമർത്തുക ഇത് സിമുലേഷൻ ആരംഭിക്കും ഔട്ട്പുട്ട് ഇവിടെയുണ്ട് അതിനാൽ ഇത് പതുക്കെ പണിയുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഔട്ട്പുട്ടിൽ കുറച്ച് വോൾട്ടേജ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം എന്താണ് ആ വോൾട്ടേജ് ശ്രദ്ധാപൂർവ്വം നോക്കുക ഈ ഔട്ട്പുട്ട് 3 3 ആണ് അതിനാൽ ഇൻപുട്ട് 1 വോൾട്ടും ഔട്ട്പുട്ട് 3 3 ഉം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻപുട്ട് ഒരു വോൾട്ട് ആണെന്നും ഔട്ട്പുട്ട് 3 3 വളരെ മികച്ചതാണെന്നും ഈ വരി സൂചിപ്പിക്കുന്നു എൽഡിഒയിൽ നിന്നുള്ള p ഔട്ട്പുട്ടുകളും ഞാൻ കാണിച്ചുതരാം അതിനാൽ ഞാൻ ഇവിടെ ക്ലിക്കുചെയ്യട്ടെ ഇത് എന്താണ് ഇത് നിങ്ങൾക്ക് 2 2 നൽകുന്നു തുടക്കത്തിൽ എന്താണ് പുറത്തുവരുന്നത് ഇത് 2 2 വോൾട്ട് ആയിരിക്കും അത് 3 3 നേക്കാൾ വളരെ കുറവാണ് നിങ്ങൾ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യും ഇതാണ് സോളാർ പാനൽ നിങ്ങൾ ഒരു സോളാർ പാനലിന് തുല്യമായി കണക്റ്റുചെയ്തുകഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വോൾട്ടേജ് കണക്റ്റുചെയ്തു നിങ്ങൾക്ക് 2 2 നേരെ ലഭിക്കും അതാണ് ഈ വരി ഈ 2 നിങ്ങൾക്ക് ഇപ്പോൾ മൈക്രോ കൺട്രോളർ എടുത്ത് പവർ ചെയ്യാം മൈക്രോ കൺട്രോളർ പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുക ബെയറിംഗിന്റെ താപനില നേടിയെടുക്കുക ബോൾ ബെയറിംഗിന്റെ ആ മൂല്യം സംഭരിക്കുക നിങ്ങൾക്ക് 3 3 ലഭിച്ചു എന്ന് എങ്ങനെ അറിയാം കാരണം ഈ പവർ ഗുഡ് സിഗ്നൽ ഈ റാമ്പിംഗ് കാലയളവിനുശേഷം 3 3 ഔട്ട്പുട്ട്ലേക്ക് പോകുന്നു അത് 3 3 ലേക്ക് പോയി സ്റ്റെബിലിറ്റി കൈവരിക്കും നിങ്ങൾക്ക് പിന്നീട് മറ്റ് എനർജി ഉപഭോഗ ഘടകങ്ങളും ഈ ഉയർന്ന റഫർ സമയം 3950 ഫീൽഡ് റഫർ സമയം 3950 വോൾട്ടേജ് ആവശ്യമുള്ള ഘടകങ്ങളും സ്വിച്ചുചെയ്യാനും സെൻസിംഗിന്റെയും ആശയവിനിമയത്തിന്റെയും പ്രവർത്തനം പൂർത്തിയാക്കാനും കഴിയും ഇൻപുട്ട് 1 വോൾട്ട് ആയി കണക്കാക്കപ്പെടുന്നു ഇനി നമുക്ക് ഈ ലളിതമായ ഉപകരണം നോക്കാം ആവശ്യമായ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നേടുന്നതിനായി ഞാൻ എന്തുചെയ്തു അതിനായി ഞാൻ ബെയറിംഗ് മോണിറ്ററിംഗ് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരുന്ന എൽടിസി സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കാണിച്ചുതരാം അതിനാൽ നിങ്ങൾക്ക് 3 2 നൽകേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് എന്റെ ശ്രദ്ധ തിരിക്കട്ടെ നിങ്ങൾക്ക് കാണാമോ ഈ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട് അതിനാൽ ആദ്യം നമുക്ക് ഇത് നോക്കാം ഇത് 1 വോൾട്ടിന്റെ ഇൻപുട്ടാണ് സിമുലേറ്റർ ഓർമ്മിക്കുക ഞങ്ങൾ 1 വോൾട്ടിന്റെ എഡിസി ഇൻപുട്ട് നൽകി ഞങ്ങൾക്ക് വിഎൽഡിസിയിൽ നിന്നും 2 2 വോൾട്ട് ലഭിക്കേണ്ടതുണ്ട് കൂടാതെ Vout ട്ടിൽ നിന്നും 3 3 വോൾട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ആ 2 ഔട്ട്പുട്ടുകൾ നമുക്ക് നോക്കാം അതിനായി നമുക്ക് ഈ മൾട്ടിമീറ്റർ നോക്കാം അതിനാൽ ഈ ഔട്ട്പുട്ട് ഞാൻ ആദ്യം കാണിക്കാം അത് 2 2 ആണ് ഇത് 3 22 വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് കാണാം ഇത് 3 3 വോൾട്ടിനടുത്താണ് അതിനാൽ എന്താണ് വലിയ ടേക്ക്അവേ നിങ്ങളുടെ IoT ഉപകരണത്തിന്റെ പവർ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് എനർജി ഹാർവെസ്റ്റിംഗ് സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ എനർജി ഹാർവെസ്റ്റിംഗ് കൊണ്ട് എന്താണ് ഉണ്ടാകുന്ന നേട്ടം തിരക്കിട്ട് ഘടകങ്ങൾ വാങ്ങി ശ്രമം ആരംഭിക്കരുത് ഘടനാപരമായ രീതിയിൽ പോകുക നിങ്ങളുടെ ഇൻഡോർ ആപ്ലിക്കേഷനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുക ഉദാഹരണത്തിന് സോളാർ പാനൽ അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഉപയോഗിച്ച് പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വരും കാലങ്ങളിലും അതിന്റെ ഒരു ഡമോൺസ്ട്രേഷൻ നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആദ്യ കാര്യമാണിത് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഇൻപുട്ടിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനുശേഷം കാര്യങ്ങളിലേക്ക് തിരക്കുകൂട്ടരുത് ലഭ്യമായ എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പുകളുടെ ഘടകങ്ങളായ ഐസികൾ നോക്കുക അവ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ നോക്കുക ഇത് 200 ലക്സ് ആണോ ഇത് 1000 ലക്സ് ആയിരിക്കുമോ ഇൻപുട്ട് അവസ്ഥ അല്ലെങ്കിൽ ഇൻപുട്ട് എനർജി ലഭ്യത എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസിലാക്കണം അതിനുശേഷം നിങ്ങൾ മനസിലാക്കിയ പാരാമീറ്ററുകൾ ഈ നല്ല സിമുലേറ്ററിൽ ഇടേണ്ടിവരാം നിങ്ങൾ തിരികെ പോയി ഈ വാല്യുകൾ ഈ സിമുലേറ്ററിൽ ഇടേണ്ടിവരും ഞാൻ ഇവിടെ 1 വോൾട്ട് ഇട്ടു ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 1 വോൾട്ട് ലൈനായ ഈ വരിയിലൂടെ ഇവിടെ കാണിക്കുന്നു ഉദാഹരണത്തിന് വിപുലീകരിക്കാൻ ഇത് ഉപയോഗപ്രദമാകും ഇത് ഇപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും എനിക്ക് ഈ ഭാഗം നന്നായി വികസിപ്പിക്കാൻ കഴിയും അതിനാൽ ഇൻപുട്ടിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഒപ്പം ഇൻപുട്ടിൽ നിങ്ങൾക്ക് 1 വോൾട്ടിനടുത്ത് എന്തെങ്കിലും ലഭിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് ഇൻപുട്ടിൽ ഇത് 1 വോൾട്ട് ആണ് അതിനാൽ ഞാൻ തിരികെ പോകട്ടെ ഇത് അവസാനിപ്പിച്ച് വീണ്ടും സിമുലേറ്റ് ചെയ്യാൻ ഒരു കാര്യം കൂടി ചെയ്യട്ടെ ഇത് വളരെ ലളിതമാണ് അതിനാൽ ഈ സിമുലേഷൻ പ്രവർത്തിപ്പിച്ച് ഓരോന്നായി നോക്കുക ഇൻപുട്ട് ഇവിടെ ഉണ്ടാകും അതിനാൽ നമുക്ക് സിമുലേഷൻ ചെയ്യാൻ കഴിയും ഈ സിമുലേഷനിൽ എന്തോ കുഴപ്പം സംഭവിച്ചു അതിനാൽ ഞാൻ ഒന്നു കൂടി ഫയൽ എടുക്കുകയാണ് എൽടിസി തുറന്ന് സിമുലേറ്റ് ചെയ്യുക ആദ്യം ഔട്ട്പുട്ട് പരീക്ഷിക്കുക എന്നതാണ് വേണ്ടത് ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇത് 3 3 ആയിരിക്കണം ഇത് ഇവിടെ 3 വോൾട്ട് ആണെന്നും ഇത് ഔട്ട്പുട്ടിൽ 3 3 വരെ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും VLDO ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം വിഎൽഡിഒ 2 2 ആണ് അതാണ് ഞങ്ങൾ മെഷർ ചെയ്യുന്നത് ചില കാരണങ്ങളാൽ ഇൻപുട്ട് അൽപ്പം ഗൌരവമുള്ളതാകുന്നു ഇത് ഇൻപുട്ടിൽ നിങ്ങൾക്ക് 1 വോൾട്ട് നൽകും അതിനാൽ ശരിയായ പോയിന്റിൽ ഞാൻ അതിൽ ക്ലിക്കുചെയ്യണം എന്നു ഞാൻ കരുതുന്നു അല്ലാത്തപക്ഷം അത് നിങ്ങൾക്ക് തെറ്റായ ഔട്ട്പുട്ട് നൽകും അതിനാൽ ഇതാണ് ഇൻപുട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ക്ലിക്കുചെയ്യണം ഞാൻ മറ്റെവിടെയെങ്കിലും ക്ലിക്കുചെയ്യുകയും അതും റേയ്സും ഗ്രൌണ്ടിലേക്ക് പോകുന്നതായി കാണാം അതിനാൽ അത് ശരിയായ പോയിന്റല്ല അതിനാൽ 1 വോൾട്ട് ഇൻപുട്ടാണെന്നും ഔട്ട്പുട്ട് 3 3 ആയും എൽഡിഒ ഔട്ട്പുട്ട് 2 വോൾട്ട് അല്ലെങ്കിൽ 2 2 വോൾട്ട് വരെയാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം ചെയ്യണം എന്നതാണ് നിങ്ങളുടെ IoT ഉപകരണത്തിനായി പവർ സപ്ലൈ ബ്ലോക്ക് നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂഡ് ചെയ്ത ഡമോൺസ്ട്രേഷൻ കാണിക്കാം എനർജി ഹാർവെസ്റ്റിംഗ് ബ്ലോക്കുകളിൽ പോലും ഇത് ശരിയാണ് നിങ്ങൾ ഒരു ബാറ്ററി അധിഷ്ഠിത സിസ്റ്റം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ജോലികളെല്ലാം ചെയ്യണം വാസ്തവത്തിൽ ഈ സിമുലേഷൻ വളരെ ശക്തമാണ് ഇനിപ്പറയുന്നവ ചെയ്യാൻ നിങ്ങൾക്ക് ശരിക്കും പ്രതീക്ഷിക്കാം ഇത് എന്താണ് നിങ്ങൾക്ക് ഇത് സ്വയം പരീക്ഷിക്കാൻ കഴിയും എന്നാൽ മുമ്പത്തെ ക്ലാസ്സിൽ ഞങ്ങൾ സംസാരിച്ച ബുള്ളറ്റ് നിങ്ങൾ ബന്ധിപ്പിക്കണം ഈ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ ഒരു ബാറ്ററി ചാർജ് ചെയ്യുക ഒരു സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക എന്ന അവസ്ഥകൾ നല്ലതാണെങ്കിൽ ഇത് എനർജി സ്റ്റോർ ചെയ്യുന്നു സംഭരിക്കുക സംഭരണം ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിനും അനുസരിച്ച് ആകാം ഒരു ചെറിയ എൽടി സ്പൈസ് സിമുലേഷൻ ശ്രമിക്കുന്നതിൽ നിന്നും ഇപ്പോൾ നിങ്ങളെ തടയുന്നതെന്താണ് ഔട്ട്പുട്ടിൽ ഒരു ബാറ്ററി ഇടുകയോ അനുയോജ്യമായ അളവിൽ ഒരു കപ്പാസിറ്റർ ഇടുകയോ ചെയ്യുന്നതു വഴി 200 300 400 ലക്സിന്റെ ഇൻപുട്ട് സാഹചര്യങ്ങളിൽ ഒരു സോളാർ സെൽ ഉപയോഗിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്താണ് അത് ഒരു ഇൻപുട്ടായി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ബാറ്ററി സോഴ്സ് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കുക ഇതിന് ഈ ബാറ്ററി ചാർജ് ചെയ്യാനോ ഒരു സൂപ്പർ കപ്പാസിറ്റർ കണക്റ്റുചെയ്യാനോ ഈ സൂപ്പർ കപ്പാസിറ്റർ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് കാണാനോ കഴിയും ഔട്ട്പുട്ടിൽ ഒരു ബാറ്ററിയോ ഒരു സൂപ്പർ കപ്പാസിറ്ററോ ആകട്ടെ ഇങ്ങനെയെല്ലാം ഈ സിമുലേഷൻ വർക്ക് നന്നായി പഠിക്കാൻ കഴിയും നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഐഒടി സിസ്റ്റത്തിന്റെ പവർ സപ്ലൈ ബ്ലോക്ക് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് അതിനാൽ ഈ എൽടിസി 3105 ചിപ്പിന്റെ ചർച്ച പൂർത്തിയാക്കുന്നതിന് ഈ ഡെമോൺസ്ട്രേഷൻ നോക്കാം ഹാർവെസ്റ്റിംഗ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഒരു പവർ സപ്ലെ നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കണ്ട കുറച്ച് ക്രിട്ടിക്കൽ പരാ മീറ്ററുകൾ ഉണ്ട് അതിനാൽ നമുക്ക് LTC 3105 നെക്കുറിച്ചുളള ഡിസ്സ്ക്കഷനുകൾ നിർത്താം ഞാൻ പാഞ്ഞിരുന്നു ഒരു LTC 3105 ക്ക് ഒരു ചെറിയ സോളാർ പാനലിൽ പ്രവർത്തിക്കാൻ കഴിയും ഒരു സോളാർ സെൽ ഉപയോഗിച്ച് ഇതിന് 600 മില്ലി വോൾട്ട് അതായത് 0 5 മുതൽ 0 6 വരെ മില്ലിവോൾട്ടുകൾ റൂം താപനിലയായ 25 ഡിഗ്രീയിൽ നൽകുന്നു എന്നാൽ താപനില കൂടുംതോറും ഇത് കുറഞ്ഞുവരുന്നു വ്യത്യസ്ത നിർമ്മാതാക്കൾ വ്യത്യസ്ത ഫിൽ ഘടകങ്ങളുള്ള വ്യത്യസ്ത തരം സോളാർ സെല്ലുകൾ നിങ്ങൾക്ക് നൽകുന്നുവെന്നും മറ്റ് അനുബന്ധ എഫിഷൻസി ഒരു പ്രധാന പോയിന്റാണെന്നും കാണുക അതാണ് സോളാർ പാനലിന് പിന്നിലെ യഥാർത്ഥ കഥ സോളാർ സെല്ലുകളും സോളാർ പാനലുകളും എങ്ങനെ ഇന്റർഫേസ് ചെയ്യാം ഒരു സോളാർ പാനലിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നതിൽ ഞാൻ കുറച്ചുകൂടി യാഥാസ്ഥിതികനാണ് ഞാൻ ഇവിടെ എഴുതിയതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ എന്റെ അഭിപ്രായമനുസരിച്ച് ഈ കാര്യം എല്ലായ്പ്പോഴും ശരിയല്ല എന്നാൽ നിങ്ങൾക്ക് ഇതിലൂടെ പോകാം ഔട്ട്ഡോർ അവസ്ഥയിൽ നിങ്ങൾ ഒരു സെന്റിമീറ്റർ ചതുരശ്ര സോളാർ പാനൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10 മില്ലി വാട്ട് ലഭിക്കും നിങ്ങൾക്ക് 50 മില്ലി വാട്ട് ലഭിക്കും എന്നതാണ് പല നിർമ്മാതാക്കളുടെയും അവകാശവാദം ഇത് ശരിയായിരിക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് ലഭിക്കുമെന്നത് പലപ്പോഴും ശരിയായിരിക്കാം എന്നാൽ സോളാർ പാനലുകളുടെ മെഷർമെന്റിനായി നിങ്ങളുടെ എല്ലാ കാൽക്കുലേഷൻ ആവശ്യങ്ങൾക്കും മറ്റും ഔട്ട്ഡോർ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമായത് പോലെ നിങ്ങൾക്ക് ഇത് എടുക്കാം ഏതെങ്കിലും യാഥാസ്ഥിതിക സമീപനത്തിനായി ഇൻഡോർ അവസ്ഥയിൽ വരൂ ഈ വലിയ പാനലിന്റെ 1 മുതൽ 10 മൈക്രോവാട്ട് വരെ നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയും എന്നാൽ നിങ്ങൾ 100 മൈക്രോവാട്ട് വരെ ഇൻഡോർ ലഭിക്കണമെന്നാണ് വീണ്ടും അവകാശവാദം നിർമ്മാതാക്കൾ ഈ പരിവർത്തന എഫിഷൻസിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്റെ കണക്കുകൂട്ടലുകളിൽ ഞാൻ 10 ശതമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് വളരെ യാഥാസ്ഥിതികമാണ് അതിനാൽ ഒരു സെന്റിമീറ്റർ ചതുര പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെക്കുറിച്ചുള്ള ഈ ചർച്ച പലപ്പോഴും തർക്കമാകുമെന്ന് ഞാൻ പറയും ഞാൻ പറയുന്നതിനേക്കാൾ മോശമായ ഒന്നും നിങ്ങൾ കണ്ടെത്തുകയില്ലെന്ന് വ്യക്തം അതിനാൽ ദയവായി കാൽക്കുലേഷനുകൾ സുരക്ഷിതമായി ചെയ്യുക എന്റെ എക്സ്പീരിയൻസും ഈമോഷൻസും ഒരിക്കലും തെറ്റുകയില്ല കാരണം ഒരു Icm സ്ക്വയർ ഒട്ട് ടോർ പാനലിനായി 10 മില്ലി വാട്ടേ എടുത്തിരുന്നുള്ളു അതേസമയം ഇൻ ഡോർ ആപ്പിക്കേഷനുകൾക്കായി ഇത് 1മൈക്രോ വാട് മുതൽ 10മൈക്രോ വാട് വരെ പോകുന്നു മറ്റൊരു ഭാഗം ഞാൻ ഡൌൺസ്ട്രീം ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഒരു എഡിസി ഉണ്ടെന്നാണ് മൈക്രോ കൺട്രോളർ തന്നെ മറ്റൊരു ലോഡാണ് ADCയിൽസെൻസറുകൾ ഉണ്ട് അത് ADCയു മായും കൺസ്യൂമിങ്ങ് ഘടകങ്ങളുമായും ബന്ധിപ്പിച്ചു സാധാരണ മൈക്രോ കൺട്രോളർ കം റേഡിയോയുമായി ആശയവിനിമയം നടത്താൻ തുടങ്ങുന്നതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം കണ്ടീഷനിംഗ് മോണിറ്ററിംഗിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും സെൻസിംഗ് പ്രവർത്തനം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഉണ്ടാകാം ആശയവിനിമയ ആവശ്യങ്ങൾക്കായി BLE റേഡിയോ പോലുള്ള കുറഞ്ഞ പവർ റേഡിയോ ഉണ്ട് ഇതെല്ലാം അർത്ഥമാക്കുന്നത് എൽടിസി 3105 തന്നെ ഒരു ഇൻപുട്ട് നൽകുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ 1 വോൾട്ട് ഇൻപുട്ട് ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു ചില പ്രവർത്തനങ്ങൾക്കായി എൽഡിഒ ഔട്ട്പുട്ടിലേക്ക് പവർ ഔട്ട്പുട്ട് ഡ്രോ ചെയ്യാൻ ആരംഭിക്കുന്നതിനുമുമ്പ് സെൻസർ വാല്യുവിന്റെ ആശയവിനിമയം നടത്തുക എൽടിസി 3105 ന്റെ ആദ്യ ഘട്ടം ഒരു എച്ച്എസ് ചിപ്പ് ആണ് എനർജി ഹാർവെസ്റ്റിംഗ് സംവിധാനങ്ങൾ ചിപ്പ് ചെയ്യുന്നതിനെ സ്റ്റാർട്ട് അപ്പ് ഘട്ടം എന്നറിയപ്പെടുന്നു അപ്പോൾ എൽഡിഒ നിയന്ത്രണത്തിലേക്ക് പോകുകയും നിങ്ങൾക്ക് നേരിട്ട് എൽഡിഒ ഔട്ട്പുട്ട് നൽകുകയും ചെയ്യും അതിനാൽ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ എൽഡിഒ ഔട്ട്പുട്ട് 2 2 വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് 2 2 വോൾട്ട് പോയിന്റ് ചിപ്പ് സ്പെസിഫിക്കേഷനിൽ നിന്ന് വളരെയധികം പവർ ഡ്രോ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ കഴിയുന്നത് ഏകദേശം 6 മില്ലിയാംപിയറുകളുടെ ഒരു കറന്റ് മാത്രമാണ് ഡാറ്റാ ഷീറ്റ് പറയുന്നത് ഇതാണ് അതിനാൽ നിങ്ങൾക്ക് മൈക്രോ കൺട്രോളറിൽ മികച്ച രീതിയിൽ സ്വിച്ചുചെയ്യാനും എൽഡിഒ ഔട്ട്പുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനാകുന്ന ചില അടിസ്ഥാന സെൻസിംഗ് നടത്താനും കഴിയും എന്തുകൊണ്ടാണ് ഇത് പുറത്തുവരുന്നത് ആദ്യം ഈ എൽഡിഒ ശ്രദ്ധാപൂർവ്വം നോക്കുക ഈ എൽഡിഒ കുറച്ചുകൂടി സമയമെടുത്തു കാരണം ഇവിടെ സർക്യൂട്ടിനായി ഞാൻ ഘടകങ്ങൾ ഇട്ടിട്ടുണ്ട് യഥാർത്ഥ Vout ട്ടിനെ അപേക്ഷിച്ച് എൽഡിഒ ഔട്ട്പുട്ട് വേഗത കുറയുന്നുവെന്ന തോന്നലാണ് ഞാൻ ഇവിടെ ഇട്ടത് യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല ഈ യഥാർത്ഥ Vout മായി താരതമ്യപ്പെടുത്തുമ്പോൾ LDO ഔട്ട്പുട്ട് വേഗത്തിൽ കുറയുന്നുവെന്ന് കാണിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് വിടുന്നു നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ ലഭിക്കണം അതിനാൽ ഇത് പരീക്ഷിച്ചുനോക്കൂ നിങ്ങൾ ശ്രമിച്ച് മടങ്ങിവന്ന് Vout ട്ടിന്റെ റോളും ഈ എൽഡിഒ ഔട്ട്പുട്ടും മാറ്റിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഔട്ട്പുട്ട് ശരിക്കും സ്റ്റെബിലിറ്റി നേടിയിട്ടില്ലെന്ന് നമുക്ക് ഇപ്പോഴും വാദിക്കാം കാരണം ഇവിടെ സ്റ്റെബിലിറ്റി പോയിന്റ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വാസ്തവത്തിൽ ഇത് ഇപ്പോഴും ഈ ചെറിയ ജാഗ്ഡ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് നൽകുന്നു ഈ ജാഗ്ഡ് ഔട്ട്പുട്ട് എന്തിനാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാന ക്ലാസിൽ ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരികെ പോയാൽ അത് ഇൻഡക്റ്റർ കറന്റ് മൂലമാണ് എന്ന് മനസ്സിലാകും ഇതാണ് നിങ്ങൾ ഇവിടെ കണ്ട ഇൻഡക്റ്റർ ഇതാണ് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ യഥാർത്ഥ ഇൻഡക്റ്റർ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് നിങ്ങൾക്ക് ഈ വേവി നേച്ചർ നൽകുന്നു സ്റ്റെബിലിറ്റി കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു അതിനാൽ ഇത് ഒരു നല്ല മൂല്യത്തിലേക്ക് സ്റ്റേബിളാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക അതിനാൽ ഔട്ട്പുട്ട് റെഗുലേറ്റർ ഉപയോഗിക്കാൻ ആരംഭിക്കുക വാസ്തവത്തിൽ ഈ യഥാർത്ഥ ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ നിഗമനം ചെയ്യുന്നതിനുമുമ്പ് നിങ്ങൾക്ക് നിരവധി രസകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഇൻപുട്ട് മാറ്റുക നിങ്ങൾ ഈ ഇൻപുട്ട് 250 മില്ലി വോൾട്ടായി മാറ്റുക താഴ്ന്ന വോൾട്ടേജിലേക്ക് ഇടുക Vout ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക Vout യഥാർത്ഥത്തിൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു വാസ്തവത്തിൽ എന്റെ പരീക്ഷണങ്ങളിൽ ഇവിടെ 3 3 വളരെ പിന്നീടാണ് വന്നത് 6 വോൾട്ട് പതുക്കെ 3 3 ഔട്ട്പുട്ടിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇവിടെ കാണുന്ന എൽഡിഒ ഔട്ട്പുട്ട് ഇതിനകം തന്നെ വരും അത് നിങ്ങൾക്ക് 2 2 നൽകും അതിനാൽ മൈക്രോ കൺട്രോളർ സ്വിച്ച് ചെയ്യുന്നതിനും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ് എൽടിസി 3105 ന്റെ മറ്റൊരു സവിശേഷത എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പുകളിൽ പകുതിയോളം താഴ്ന്ന വോൾട്ടേജ് ലോക്ക് ഔട്ടിനുള്ള കഴിവുള്ളവയാണ് എന്തുകൊണ്ട് ഇത് പ്രധാനം കാരണം ഇൻപുട്ട് പവർ സോഴ്സ് ദീർഘകാലത്തേക്ക് ഇല്ലാതാകാം ഇൻപുട്ട് പവറിന് ഈ പ്രത്യേകതയാണെങ്കിൽ അത് ഒരു ദീർഘകാലത്തേക്ക് ഇല്ലെങ്കിൽ ഈ എൽടിസിക്ക് ഇപ്പോൾ ഈ ദിശയിൽ പവർ സ്വീകരിക്കാൻ കഴിയുമെന്നതിനാൽ ഈ ഔട്ട്പുട്ട് അപ്രത്യക്ഷമാക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല പവർ ഫ്ലോട്ട് ഈ രീതിയിൽ സംഭവിക്കാനും പവർ ഔട്ട്പുട്ട് കുറയ്ക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇത് പൂർണ്ണമായ ഷട്ട് ഡൌൺ അവസ്ഥയിലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഔട്ട്പുട്ട് എന്തായാലും നിലനിൽക്കും റിവേഴ്സ് റിഡക്ഷനിൽ എൽടിസി പവർ ഡ്രോ ചെയ്യാനും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് പ്രധാനമായും വോൾട്ടേജ് ലോക്ക് ഔട്ടിന് കീഴിലുള്ളതാണ് ഈ കൺവെർട്ടർ ചിപ്പ് സ്റ്റെബിലിറ്റിയുള്ളതാണെന്ന് ഉറപ്പാക്കുന്നതിന് ഞാൻ ഇവിടെ എഴുതിയതുപോലെ ഷട്ട്ഡൌൺ പൂർത്തിയാക്കേണ്ടതുണ്ട് അവസാനമായി എമ്പഡഡ് സിസ്റ്റം ഇലക്ട്രോണിക്സിന്റെ ഒരു ചെറിയ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എൽടിസി ഔട്ട്പുട്ട് 3 3 വോൾട്ടിൽ എടുക്കുകയും നിങ്ങൾ ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്താൽ 1 മുതൽ 4 മില്ലി സെക്കൻഡ് വരെ വളരെ കുറഞ്ഞ കാലയളവിൽ 20 മുതൽ 35 മില്ലി ആമ്പിയർ വരെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായി വരും ഇത് നിങ്ങൾക്ക് 70 മില്ലി വാട്ട് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും എനർജി ഉപഭോഗം നൽകുന്നു ഞങ്ങൾ മൈക്രോകൺട്രോളർ സ്ലീപ്പിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് പ്രവാഹങ്ങൾ സാധാരണയായി 4 മൈക്രോ ആമ്പിയറുകളായിരിക്കും ഒരു പവർ റൈറ്റിന്റെ 12 മുതൽ 15 മൈക്രോ വാട്ട് വരെ നിങ്ങൾക്ക് എവിടെയും ആവശ്യമായി വന്നേക്കാം അതിനാൽ ഈ പീക്ക് പവർ ആവശ്യകത 70 സ്ലീപ്പ് പവർ ആവശ്യകത 15 മില്ലി വാട്ട് ഇവയെല്ലാം നിങ്ങളുടെ പാനലിന്റെ വലുപ്പം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലേക്ക് നയിക്കുന്നു അതിനാൽ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പാനലിന്റെ വലുപ്പം നിങ്ങളുടെ പവർ മാനേജുമെന്റ് അൽഗോരിതം എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എനർജി ഹാർവെസ്റ്റിംഗ് സംവിധാനം എന്നാൽ സെൻസറുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ആവശ്യകത ഇതാണ് നിങ്ങളുടെ പവർ മാനേജുമെന്റ് അൽഗോരിതം ബാൾ ബിയറിങ്ങിന്റെ ബിയറിങ്ങ് കണ്ടീഷൻ മോണിറ്ററിങ്ങ് പ്രധാനമായും ഇതിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഫ്ലോ ചാർട്ട് ഞാൻ നിങ്ങളുമായി ചർച്ചചെയ്തിരുന്നു അത് വളരെ പ്രധാനമാണ് അങ്ങനെ ചർച്ചകൾ എല്ലാ ഗ്യാപ്പുകളും ഫിൽ ചെയ്യുന്നു വളരെയധികം നന്ദി